ഹലോ സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന്റെ ഈ വീഡിയോ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഈ വീഡിയോ ലെക്ച്ചറിൽ സൈഡ് ചാനൽ അനാലിസിസിന്റെ ഒരു സംക്ഷേപം കാണാം ഈ ലെക്ച്ചറർ അനുമാനിക്കുന്നത് നിങ്ങള്ക്ക് AES ബ്ലോക്ക് സൈഫറിനെയും RSA പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംനെ കുറിച്ചുള്ള അറിവ് ഉണ്ടെന്നാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് വളരെയേറെ ശക്തമായ ഈ അൽഗോരിതങ്ങളെ തകർക്കാൻ ഉള്ള കുറച്ചു തന്ത്രങ്ങളാണ് ആധുനിക ബ്ലോക്ക് സൈഫെർസ് ഉണ്ടാക്കിയിരി ക്കുന്നത് ശക്തമായ നിഗമനങ്ങളുടെ പുറത്താണ് സത്യത്തിൽ നമ്മളെ അനുമാനിക്കുന്നത് അറ്റാക്കർക്കു രഹസ്യ കീ ഒഴിച്ച് അൽഗോരിതത്തെ കുറിച്ച എല്ലാം അറിയാം എന്നാണ് അതായത് അറ്റാക്കർക്കു എൻക്രിപ്ഷൻ അൽഗോരിതവും ഡീക്രിപ്ഷൻ അൽഗോരിതവും മുഴുവനായി അറിയാം മാത്രമല്ല ആയാൾക്കു എന്തായിരിക്കും പ്ലെയിൻ ടെക്സ്റ്റ് അതിന്റെ സൈഫർ ടെക്സ്റ്റ് എന്നും നിർണയിക്കാനും സാധിക്കും അറ്റാക്കർക്കു എൻക്രിപ്ട് ചെയ്യേണ്ട പ്ലെയിൻ ടെക്സ്റ്റോ ഡീക്രിപ്ട് ചെയ്ത സൈഫർ ടെക്സ്റ്റോ തിരഞ്ഞെടുക്കാൻ കഴിയും എന്ന ശക്തമായ നിഗമനങ്ങൾ നടത്തേടത്തുണ്ട് അകെ അറിയാത്തത് രഹസ്യ കീ മാത്രമാണ് ഇനി അറ്റാക്കറുടെ ലക്ഷ്യം പല പല വ്യത്യസ്തമായ പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റ് എടുത്ത് മാറ്റി മാറ്റി പരീക്ഷിച്ചു രഹസ്യ കീ കണ്ടെത്താൻ ശ്രമിക്കലാണ് എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള അനുമാനങ്ങൾ നടത്തുന്നത് അതായാത് നമുക്ക് കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രഹസ്യമാക്കി വയ്ക്കേണ്ട വിവരങ്ങളുടെ അളവ് കുറക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ അൽഗോരിതം അറ്റാക്കർക്ക് അറിയില്ല എന്ന ധാരണയിലാണ് നമ്മുടെ സെക്യൂരിറ്റി പോളിസി എങ്കിൽ അറ്റാക്കർക്കു ഈ അൽഗോരിതം പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുകയോ ചെയ്യാം A51 A52 എന്നീ രണ്ടു സ്ട്രീം സൈഫർസിനെ രഹസ്യമാക്കി വച്ചതിനെ സംബന്ധിച്ചു ഒരു കേസ് സ്റ്റഡി ഉണ്ട് പല ഗവേഷകരും റിവേഴ്സ് എഞ്ചിനീയറിംഗും പിന്നെ ലീക്ക് ആയ വിവരങ്ങളും വച്ച് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിശദീകരണവുമായി വന്നിരുന്നു കുറച്ചു വർഷങ്ങൾക്കു ശേഷം അറ്റാക്കർക്കു എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുകയും ഇതിനെ തകർക്കാനുള്ള ക്രിപ്റ്റ് അനാലിറ്റിക് അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിരുന്നു ഇത് തൊണ്ണൂറുകളുടെ അവസാനമായിരുന്നു 2000 തുടക്കത്തോടെ A51 ഉം A52 രണ്ടും തകർക്കപ്പെട്ടിരുന്നു തുടർന്ന് A53 എന്ന പുതിയൊരു സൈഫർ ഉണ്ടാക്കിയെടുത്തിരുന്നു പിന്നീടങ്ങോട്ട് എല്ലാ സൈഫർ സും ഡിസൈൻ ചെയ്യപ്പെട്ടത് ഈയൊരു അനുമാനം വച്ചായിരുന്നു അതായത് AES DES A53 മുതലായ എല്ലാം ഡിസൈൻ ചെയ്യപ്പെട്ടത് അറ്റാക്കർക്കു ഈ അൽഗോരിതം മുഴുവനായി അറിയാമെന്നും പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നും വച്ചാണ് രഹസ്യ കീ മാത്രമാണ് രഹസ്യമായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൈഫർ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അറ്റാക്കുകൾ ഉണ്ടാക്കുക എന്നത് വളരെയേറെ ഇൻഎഫിഷ്യന്റ് ആണെന്ന തരത്തിലാണ് എന്തിരുന്നാലും ഇന്ന് നമുക്ക് അറിയാം സെക്യൂരിറ്റി എത്രത്തോളം ശക്തമാണോ അത്രയും ദുർബലവുമാണ് എല്ലായ്പോഴും അറ്റാക്കർക്കു അൽഗോരിതം മുഴുവനായി തകർക്കേണ്ട ആവശ്യം ഇല്ല ഒരു വീക്ക് ലിങ്ക് കണ്ടുപിടിച്ചു അതുപയോഗിച്ചു സൈഫർ തകർത്താൽ മതി ഇത്തരം ദുർബല ലിങ്കുകളെയാണ് സൈഡ് ചാനൽ എന്ന പറയുന്നത് ഇതൊരു സാധാരണ ചിത്രമാണ് ഇവിടെ കാണുന്നത് അറ്റാക്കർ ശരിയായ പാതയിലൂടെ പോകില്ല അയാൾ സൈഡ് ചാനൽ ആണ് ഉപയോഗിക്കുക എന്നിട്ടയാൾ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയ വിവരങ്ങൾ ഉപയോഗിച്ച് സൈഫർ തകർക്കും ഉദാഹരണത്തിന് എന്താണ് സൈഡ് ചാനൽ അറ്റാക്ക് എന്ന് ചുരുക്കത്തിൽ പറയാം ഒരു സൈഡ് ചാനൽ ഉന്നം വയ്ക്കുന്നത് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ അൽഗോരിതങ്ങളെ മാത്രമല്ല അവയുടെ ഇമ്പ്ലിമെന്റേഷനെ കൂടിയാണ് ഉദാഹരണത്തിന് ആലീസും ബോബും ആശയവിനിമത്തിനായി ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ ഇവിടെ സൈഡ് ചാനൽ അറ്റാക്കർ ഉപയോഗിക്കുക ഈ അൽഗോരിതത്തിന്റെ ഇമ്പ്ലിമെന്റേഷൻ ആണ് അതായത് അവർ മൊബൈൽ ഫോൺ ആണ് സംസാരിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റാക്കർ ഈ ഡിവൈസിൽ നിന്ന് ലീക്ക് ചെയുന്ന വിവരങ്ങളെ പിന്തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഈ സൈഡ് ചാനൽ വിവരങ്ങൾ ഉപയോഗിച്ച് ആലീസും ബോബും ഉപയോഗിച്ച രഹസ്യ കീ അറ്റാക്കർക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ 20 25 കൊല്ലങ്ങളായി കുറെ വ്യത്യക്ഷമായ ക്രിപ്റ്റോഗ്രാഫിക് സെഫേഴ്സിനെ തകർക്കാനായി സൈഡ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രശസ്തമായ ഒന്നായിരുന്നു പവർ കൺസമ്പ്ഷൻ അതിൽ അറ്റാക്കർക്കു ഈ ഡിവൈസിന്റെ സ്ഥാനമോ പവർ ഉപഭോഗമോ ലഭിക്കാൻ കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന കംപ്യൂട്ടേഷനുകളുടെ വിവരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഇതിലെ അടിസ്ഥാന തത്വം എന്നത് ഒരു ഡിവൈസിന്റെ പൂവെർ ഉപഭോഗം എന്നത് അതിൽ നടക്കുന്ന ഒപ്പേറഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കും ഉദാഹരണത്തിന് ലോഡ് സ്റ്റോർ പോലുള്ള ഇൻസ്ട്രക്ഷനുകൾ താരതമ്യേന മൂവ് അഡിഷൻ പോലുള്ള ഇൻസ്ട്രക്ഷനുകളേക്കാൾ കൂടുതൽ പവർ എടുക്കും റേഡിയേഷൻ ഉപയോഗിച്ചുള്ള രീതിയാണ് മറ്റൊരു പ്രശസ്തമായ സൈഡ് ചാനൽ ഇതുപോലുള്ള ഒരു സൈഡ് ചാനൽ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ എങ്ങനെയാണു എക്സിക്യൂഷൻ ടൈം നിരീക്ഷിച്ചു കൊണ്ട് ഒരു സൈഫർ തകർക്കാം എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ലെക്ചർറിൽ ഫോൾട്ട് അറ്റാക്ക് എന്നറിയപ്പെടുന്ന മറ്റൊരു സൈഡ് ചാനൽ അറ്റാക്കിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഒരു ഫോൾട്ട് അറ്റാക്ക് എങ്ങനെ ആയിരിക്കും എന്നതിന്റെ ലളിതമായ ഉദാഹരണം കാണാം ഇവിടെ ആലീസിനെ ഈ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യണം അതിനായി ഒരു എൻക്രിപ്ഷൻ അൽഗോരിതവും കീ ആയി 00111 ഉം ഉപയോഗിക്കുന്നു ഈ എൻക്രിപ്ഷൻ അൽഗോരിതം ഇമ്പ്ലിമെൻറ് ചെയ്തിരിക്കുന്ന ഈ ഡിവൈസിലേക്ക് എൻക്രിപ്ട് ചെയ്യേണ്ട മെസ്സേജും കീയും കൊടുക്കുന്നു ഈ ഇമ്പ്ലിമെന്റേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറ്റാക്കർ സൈഡ് ചാനൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ഈ കേസിൽ അറ്റാക്കർ ഒരു ആൻറ്റെന്ന ഉപയോഗിക്കുകയോ പവർ ലൈൻ ടേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പവർ ഉപഭോഗം പോലത്തെ മറ്റു സൈഡ് ചാനൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നുവെന്ന് അനുമാനിക്കാം ഇവിടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നതാണ് ഈ ഡിവൈസിൽ നിന്നുള്ള റേഡിയേഷൻ ഇവിടെ നിന്ന് മനസ്സിലാക്കാം റേഡിയേഷൻ എക്സിക്യൂട്ട് ചെയുന്ന രഹസ്യ കീയുടെ ബിറ്റുകൾക്കനുസരിച്ചു മാറിക്കൊണ്ടിരിക്കും ഈ വേവ് ഫോമിന്റെ ഈ ഭാഗം മറ്റു ഭാഗങ്ങളുമായി താരാതമ്യം ചെയ്താൽ ഇവിടെ ഗ്ലിച്ചസ് വളരെ നേർത്തതും ഇവിടെ വീതിയേറിയതും ആണെന്ന് കാണാം ഈ തത്വം ഉപയോഗിച്ച് അറ്റാക്കർന്നു കീ ബിറ്റ് 0 ആണോ അതോ 1 ആണോ എക്സിക്യൂട്ട് ചെയ്യപെടുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും സിമ്പിൾ പവർ അറ്റാക്ക് എന്നറിയപ്പെടുന്ന ഇത് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ വിവരിക്കപ്പെട്ടതു മുതൽ ഇതിനു കുറെയേറെ കൌണ്ടർ മെഷേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇന്ന് കണ്ടതുപോലുള്ള പ്രശസ്തമായ ഡിവൈസുകൾക്കും ഇത് തടയാനാകും എന്തിരുന്നാലും കുറെയേറെ സങ്കീർണമായ അറ്റാക്കുകൾ തടായാനാകാതെ നിലവിലുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സൈഡ് ചാനൽ അറ്റാക്കുകൾ നിലവിലുണ്ട് ചിലത് പവർ ഇലക്ട്രോ മാഗ്നെറ്റിക് റേഡിയേഷൻ ടൈമിംഗ് അറ്റാക്സ് പോലുള്ള നോൺ ഇൻവേസീവ് അറ്റാക്കുകൾ ആണ് അറ്റാക്കർ പാസ്സീവ് ആയി നിരീക്ഷിക്കുന്നതിനാൽ ഇവ പാസ്സീവ് ആണ് എന്നാൽ നമ്മൾ ഇന്ന് കണ്ടത് നോൺ ഇൻവേസീവ് ആക്റ്റീവ് അറ്റാക്ക് ആണ് ഇത് ഫോൾട്ട് അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഈ അറ്റാക്കുകൾ ആണ് നമ്മൾ ഈ വീഡിയോ ലെക്ച്ചറിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫോൾട്ട് ഇൻജെക്ഷൻ അറ്റാക്ക് എന്താണെന്നു കാണാം ഫോൾട്ട് ഇൻജെക്ഷൻ അറ്റാക്കന്റെ പശ്ചാത്തലം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു ആക്റ്റീവ് അറ്റാക്ക് ആണ് ക്രിപ്റ്റോഗ്രാഫിക് ഫങ്ക്ഷൻ നടക്കുമ്പോൾ ആണ് ഡിവൈസിന്റെ പ്രവർത്തനം താറുമാറാക്കാൻ ഇത് ഫോൾട്ടുകൾ നിക്ഷേപിക്കുന്നത് അതായത് ചില വഴികളിലൂടെ ഫോൾട്ട് കടത്തിവിടുമ്പോൾ എക്സിക്യൂഷനിൽ മാറ്റാം വര്ക്കായ് സ്കിപ്പ് ചെയ്യുകയോ ഉണ്ടാകുന്നതിനാൽ എൻക്രിപ്ഷനോ അല്ലെങ്കിൽ ഡീക്രിപ്ഷനോ അതിന്റെ ഔട്പുട്ട് തെറ്റായിപ്പോകും ഇനി അറ്റാക്കർ ഈ ഔട്പുട്ട് രഹസ്യ കീയെ കുറിച്ചറിയാൻ ഉപയോഗിക്കും ഈ അറ്റാക്ക് ആദ്യമായി ആവിഷ്കരിച്ചത് Boneh Demillo and Lipton 1996ൽ RSA ൽ ആണ് അതുകഴിഞ്ഞു Biham ബ്ലോക്ക് സൈഫർ ഡെസ്കിൽ ഡിഫറെൻഷ്യൽ അനാലിസിസ് അറ്റാക്ക് ഉണ്ടാക്കി കൂടാതെ Anderson CHES 2002 ൽ പബ്ലിഷ് ചെയ്ത ഒപ്റ്റിക്കൽ ഫോൾട്ട് ഇൻഡക്ഷൻ അറ്റാക്സ് പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫോൾട്ട് അറ്റാക്കുകൾ ഉണ്ട് ഫോൾട്ട് അറ്റാക്കിന്റെ ഐഡിയ നോക്കാം അറ്റാക്കറുടെ കൈയിൽ ബ്ലോക്ക് ബോക്സ് പോലുള്ള എൻക്രിപ്ഷൻ അൽഗോരിതം സ്റ്റോർ ചെയുന്ന ഒരു ഡിവൈസ് ഉണ്ടെന്നു കരുതുക ഇനി അറ്റാക്കർക്കു പ്ലെയിൻ ടെക്സ്റ്റ് എന്നറിയപ്പെടുന്ന മെസ്സേജുകൾ അയക്കുകയും അത് എൻക്രിപ്ഷൻ അൽഗോരിതത്തെ ട്രിഗർ ചെയ്തു പ്രവർത്തിപ്പിച്ചു സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഡിവൈസിൽ സ്റ്റോർ ചെത്തിരിക്കുന്ന രഹസ്യ കീ കൈക്കലാക്കാൻ നോക്കും അതിനായി അറ്റാക്കർ ഒരു മെസ്സേജ് ഉണ്ടാക്കി ഡിവൈസിനു അയച്ചു എൻക്രിപ്ഷൻ ഓപ്പറേഷൻ നടത്താൻ പ്രേരിപ്പിക്കും ഡിവൈസിൽ ഇമ്പ്ലിമെന്റഡ് ആയ അൽഗോരിതം സൈഫർ ടെക്സ്റ്റ് ജെനറേറ്റ് ചെയ്യും ഈ സൈഫർ ടെക്സ്റ്റ് ആണ് ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റ് എന്നറിയപ്പെടുന്നത് ഇനി അറ്റാക്കർ ചെയുന്നത് എന്താണെന്നുവച്ചാൽ അയാൾ അതെ മെസ്സേജ് അതായാത് അതെ പ്ലെയിൻ ടെക്സ്റ്റ് ഡിവൈസിലേക്ക് device൦ അതെ അൽഗോരിതത്തിലേക്ക് അയക്കും ഈ സമയം ഇത് എൻക്രിപ്ട് ചെയ്യുമ്പോൾ അയാൾ എക്സിക്യൂഷനിലേക്ക് ഒരു ഫോൾട്ട് കൂടി ഇൻഡ്യൂസ് ചെയ്യും ഈ ഫോൾട്ട് കുറച്ചു ബിറ്റുകൾ ടോഗ്ൾ ചെയ്യുകയോ കുറച്ച ഇൻസ്ട്രക്ഷൻസ് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുന്ന ഓപ്പറേഷൻസ് താറുമാറാക്കുകയോ ചെയ്യും തത്ഫലമായി സൈഫർ ടെക്സ്റ്റ് തെറ്റായി തീരുകയും ചെയ്യും അപ്പോൾ അറ്റാക്കർക്കു യഥാർത്ഥ ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റിന് വ്യത്യാസ്തമായ ഒരു ഫോൾട്ടി സൈഫർ ടെക്സ്റ്റ് ഉണ്ടാകും ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായ രണ്ടു സൈഫർ ടെക്സ്റ്റ് ഉണ്ട് ഒന്ന് ഫോൾട്ട് ഫ്രീയും മറ്റേതു ഫോൾട്ടിയും ഇനി അറ്റാക്കർ ഇവ രണ്ടും പരിശോധിച്ച് രഹസ്യ കീ കണ്ടെത്തും ഇവിടെ രണ്ടു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എങ്ങനെയാണു അറ്റാക്കർ എൻക്രിപ്ഷൻ സമയത്ത് ഫോൾട്ട് ഇൻഡ്യൂസ് ചെയ്തത് എന്നും രണ്ടാമതായി ഫോൾട്ടി സൈഫർ ടെക്സ്റ്റ് ഫോൾട്ട് ഫ്രീ സൈഫർ ടെക്സ്റ്റിന് എന്നിവയും വച്ചുകൊണ്ട് എങ്ങനെയാണു രഹസ്യ കീ കണ്ടുപിടിക്കുന്നതെന്നും ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്യാനായി പല വഴികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ചിലതു വളരെ ചിലവുകുറഞ്ഞത് ആണ് അതായത് 1000 ഡോളേഴ്സിന് താഴെ നടക്കും മറ്റു ചിലത് ചെലവേറിയതാണ് ചിലവേറിയവ ഏതാണ്ട് ഇതുപോലിരിക്കും അതിൽ ഒരു ലേസർ ഉണ്ടായിരിക്കും ഫയർ ലേസറിൽ തല്പരനായ അറ്റാക്കർ ഇത് ഡിവൈസിൽ വയ്ക്കും ഈ ലേസർ ഡിവൈസിൽ ഏതെങ്കിലും സ്പെസിഫിക്ക് ഭാഗത്തേക്ക് പോയിൻറ് ചെയ്യുമ്പോൾ അത് കംപ്യൂട്ടേഷന്റെ സമയത്തു കുറച്ചു ബിറ്റുകൾ ടോഗ്ൾ ചെയ്യുന്നു അങ്ങനെ ഫോൾട്ട് ഇൻഡ്യൂസ് ചെയ്യും ഇതുപോലെ തന്നെ ഡിവൈസിന്റെ ക്ലോക്ക് സോഴ്സിൽ ഗ്ലിച് വരുത്തി പവർ ഉപഭോഗത്തിലും ഗ്ലിചെസ് ഇൻജെക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഗ്ലിച് ഡിവൈസ് സ്റ്റേറ്റിനെ ടോഗ്ൾ ചെയ്യുകയും തത്ഫലമായി ഫോൾട്ടി കംപ്യൂട്ടേഷൻ നടക്കുകയും ചെയ്യുന്നു ഇതുപോലെ ക്ലോക്ക് സോഴ്സിലെ ഗ്ലിച്ചിനും ഡിവൈസിന്റെ ഓപ്പറേഷനിൽ ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്തു ഒരു വയലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെക്ക്നിക്കുകളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത് മറ്റു ടെക്ക്നിക്കുകളായ പവർ ഗ്ലിച്ചിങ്ങും ക്ലോക്ക് ഗ്ലിച്ചിങ് എന്നിവയെ അപേക്ഷിച്ച ബുദ്ധിമുട്ടേറിയതാണ് ഇത് ക്ലോക്ക് ഗ്ലിച്ചിങ് ഉപയോഗിച്ച് AES ഇമ്പ്ലിമെന്റേഷനിൽ നടത്തുന്ന ഒരു ഫോൾട്ട് ഇൻജക്ഷന്റെ ഉദാഹരണമാണ് ഇത് ഒരു പ്ലെയിൻ ടെക്സ്റ്റും രഹസ്യ കീയും എടുത്തിട്ട് സൈഫർ ടെക്സ്റ്റ് തരുന്നു ഇത് ഇൻപുട്ട് ആയി റീസെറ്റ് സിഗ്നലും ക്ലോക്ക് സോഴ്സും എടുക്കുന്നുണ്ട് നമ്മൾ ഫോൾട്ട് ഒരു പ്രത്യേക സമയത്തു ഇൻഡ്യൂസ് ചെയ്യാനായി ഒരു ഫാസ്റ്റ് ക്ലോക്കിനെയും ഒരു സ്ലോ ക്ലോക്കിനെയും മൾട്ടിപ്ളെക്സ് ചെയ്യിക്കാനായി ഒരു മൾട്ടിപ്ലെക്സർ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആട്ടക്കർക്കു ഒരു ഫോൾട്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അയാൾ ഈ സെലക്ട് ലൈൻ 0ൽ നിന്ന് 1 ആക്കും ഇപ്പോൾ ഈ ഡിവൈസിന്റെ ഓപ്പറേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്നുവച്ചാൽ ഈ മൾട്ടിപ്ലെക്സറിന്റെ സെലക്ട് ലൈൻ 0 ആയതിനാൽ സ്ലോ ക്ലോക്ക് ആയിരിക്കും പാസ്സ് ആകുക അതായത് AES ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്ലോ ക്ലോക്കിൽ ആയിരിക്കും ഇനി അത് 1 ലേക്ക് മാറ്റുമ്പോൾ ഫാസ്റ്റ് ക്ലോക്ക് AES ലേക്ക് പാസ്സ് ആകുകയും AES ഇതുപയോഗിച്ചു ഫാസ്റ്റ് റേറ്റിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ഫാസ്റ്റ് ക്ലോക്ക് AES സർക്യൂട്ടിലെ പല ഗെയ്റ്റുകളുടെ സെറ്റപ്പും ഹോൾഡ് ടൈമും വയലേറ്റ് ചെയ്യുന്നതിനാൽ ഫോൾട്ടി ഔട്പുട്ട് ഉണ്ടാകുന്നു ഈ ഫോൾട്ടി ഔട്പുട്ട് AES ഹാർഡ് വേറിന്റെ ഔട്പുട്ടിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഫോൾട്ടി സൈഫർ ടെക്സ്റ്റ് ഉണ്ടാകുന്നു ഈ ചിത്രം ഒരു ഫോൾട്ടിന്റെ പ്രതീതി കാണിക്കുന്നു ഈ പ്രത്യേക ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ ഇതിന്റെ വാല്യൂ 0x2829E ആണെന്ന് നമുക്ക് കാണാം ഇതാണ് ഫോൾട്ട് ഇല്ലാത്തപ്പോൾ ഉള്ളത് ക്ലോക്ക് ഗ്ലിച്ചിങ് പോലത്തെ ഫോൾട്ട് ചേർക്കുമ്പോൾ 282 എന്നത് 292 ആയി മാറുന്നു അതായത് ഒരു ബിറ്റ് ടോ ഗ്ൾ ആകുന്നു അതായത് ഈ 8 9 ആയി ഈ നിബ്ബ്ളിന്റെ LSB ൽ ഫോൾട്ട് ചേർക്കപ്പെട്ടപ്പോൾ മാറ്റം സംഭവിച്ചു വ്യത്യസ്തമായ പലതരം ഫോൾട്ട് മോഡലുകൾ ലഭ്യമാണ് അതിൽ പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് ബിറ്റ് ഫോൾട്ട് മോഡൽ ആണ് ഒരേ ഒരു ബീറ്റിൽ മാത്രം മാറ്റം വരുത്തുന്ന ഒരു ബിറ്റ് ഫോൾട്ട് മോഡൽ ആണ് ഇവിടെ കാണിക്കുന്നത് സൈഫറിൽ ഈ ഒരു വാല്യൂ വരുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ഇനി ഒരു ബിറ്റിൽ മാത്രം മാറ്റം വരത്തക്ക വിധത്തിൽ അറ്റാക്കർ വളരെ സൂക്ഷ്മമായി ഒരു ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ കാണുന്ന 23 33 ആകും ഈ ഒരു ബിറ്റ് സൈഫറിന്റെ സ്റ്റേറ്റ് മറ്റും അതിനാലാണ് ഇതിനെ ബിറ്റ് ഫോൾട്ട് മോഡൽ എന്ന വിളിക്കുന്നത് ഒരു ബൈറ്റിന്റെ മാറ്റം വരുത്തുന്ന മോഡൽ ഉണ്ട് ബൈറ്റ് ഫോൾട്ട് മോഡൽ 8823124345 എന്നത് 8836124345 ആയി മാറിയപ്പോൾ 23 36 ആയി 23 എന്ന ബൈറ്റ് സാധ്യമായ 255 വാല്യൂസിൽ ഏതെങ്കിലും ആകാം എന്നാൽ 88 12 43 45 എന്നിവ ഫോൾട്ട് മൂലം ബാധിക്കപ്പെടില്ല എന്ന അനുമാനിക്കാം എല്ലാത്തിലും വച്ച് പ്രയോഗികമായത് മൂന്നാമത്തെ മോഡൽ ആയ മൾട്ടിപ്പിൾ ബൈറ്റ് മോഡൽ ആണ് ഇവിടെ ഒരു ബൈറ്റ് എന്ന നിയന്ത്രണം ഒന്നുമില്ല എത്ര ബൈറ്റ് വേണമെങ്കിൽ ആകാം ഈ ഉദാഹരണത്തിൽ മൾട്ടിപ്പിൾ ഫോൾട്ട് മൂന്നോളം 23 36 ആയി അതുപോലെ 45 33 ആയി ഈ മോഡൽ അറ്റാക്കറുടെ ശക്തിയെയും സങ്കീർണതയേയും സ്വാധീനിക്കുന്നുണ്ട് അതായത് അറ്റാക്കിലേക്കു ഇപ്പോൾ ഒരു ബിറ്റ് ഇൻപുട്ട് ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ അത് ഫോൾട്ടിൽ ഒരു ബിറ്റ് മാത്രമേ മാറ്റൂ അപ്പോൾ അറ്റാക്ക് വളരെ എളുപ്പമായി പക്ഷെ ഇങ്ങനത്തെ ബിറ്റ് ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പ്രായോഗികമല്ല എന്നാൽ മൾട്ടിപ്പിൾ ബൈറ്റ് ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ് എന്തിരുന്നാലും രഹസ്യ വിവരം മൾട്ടിപ്പിൾ ഫോൾട്ട് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് മൾട്ടിബൈറ്റ് ഫോൾട്ടിൽ നിന്ന് സിംഗിൾ ബിറ്റ് ഫോൾട്ടിലേക്ക് നീങ്ങുമ്പോൾ അറ്റാക്ക് എളുപ്പമായതായാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതായത് അറ്റാക്കിന്റെ പ്രാക്റ്റിക്കാലിറ്റി കുറഞ്ഞു ബിറ്റ് ഫോൾട്ട് മോഡൽ ഉപയോഗിക്കുന്ന അറ്റാക്കുകളേക്കാൾ മൾട്ടിപ്പിൾ ബൈറ്റ് മോഡൽ അറ്റാക്കുകൾക്ക് പ്രാക്റ്റിക്കാലിറ്റി കൂടുതലാണ് ഇത് മൾട്ടിപ്പിൾ ബൈറ്റ്സിൽ ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്യാൻ എളുപ്പമായതിനാൽ ആണ് ഇനി നമുക്ക് RSA പബ്ലിക് കീ സൈഫറിൽ ഉള്ള പ്രശസ്തമായ ഒരു ഫോൾട്ട് അറ്റാക്ക് നോക്കാം RSA ഡീക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നത് കാണാം നമുക്ക് y എന്നൊരു സൈഫർ ടെക്സ്റ്റ് ഉണ്ട് സീക്രെട്ട് കീ a ആയതിനാൽ y a mod n ആയിരിക്കും പ്ലെയിൻ ടെക്സ്റ്റ് x സാധാരണ a യുടെ വാല്യൂ കുറച്ച വലുതായാതിനാൽ ഏകദേശം 1024 ബിറ്റ് x ൻറെ വാല്യൂ ലഭിക്കുന്നത് എക്സ്പോണെൻഷ്യൽ അൽഗോരിതം ഉപയോഗിച്ചായിരിക്കും ഇനി നമുക്ക് ലളിതമായ സ്വകാര്യ കീയുടെ ഒരു ബിറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു അറ്റാക്ക് നോക്കാം ആദ്യം അറ്റാക്കർ 1 ബിറ്റ് മോഡൽ ആണ് പരിഗണിക്കുന്നത് ഇവിടെ RSA ഡീക്രിപ്ഷൻ a യുടെ ഒരു ബിറ്റ് 0 ൽ നിന്ന് 1 ആക്കി മാറ്റുന്നു അതായത് a യുടെ ബിറ്റ് 0 ആണെങ്കിൽ അത് 1 ഉം 1 ആണെങ്കിൽ അത് 0 ഉം ആക്കി മറ്റും ഉദാഹരണത്തിന് a യുടെ വാല്യൂ 0110 ആണെന്ന് കരുതുക പൊസിഷൻ i ൽ ഉള്ള ബിറ്റ് i യുടെ വാല്യൂ 2 ആണെന്ന് കരുതുക അപ്പോൾ അറ്റാക്കറുടെ ലക്ഷ്യം ഈ ബിറ്റ് ആയിരിക്കും അതായത് അയാൾ ലേസർ ബീം ഇതിലേക്ക് ഫോക്കസ് ചെയ്തു ഇതിന്റെ വാല്യൂ 1 ൽ നിന്ന് ഫോൾട്ടി ആയ 0 ലേക്ക് മാറ്റും ഇതാണ് a യുടെ ഫോൾട്ടി വാല്യൂ ഇത് ഡിവൈസിനകത്തു സ്റ്റോർ ചെയ്തിരിക്കുന്നതിനാൽ അറ്റാക്കർക്കു കാണാൻ കഴിയില്ല അയാൾ ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്തു ബിറ്റുകളിൽ മാറ്റം വരുത്താം അതായത് ബിറ്റിന്റെ വാല്യൂ എന്താണെന്നറിയാതെ ആറ്റാക്കർ ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്തു i സ്ഥാനത്തുള്ള ബിറ്റ് ടോഗ്ൾ ചെയ്യും നമ്മൾ എടുത്ത ഉദാഹരണത്തിൽ a യുടെ രഹസ്യ വാല്യൂ 0110 ആയിരുന്നത് അറ്റാക്കർ 0010 ആക്കി മാറ്റി ഡീക്രിപ്ഷൻ നടക്കുമ്പോൾ ഫോൾട്ട് ഇല്ലാത്ത കേസിൽ x ൻറെ വാല്യൂ കിട്ടുന്നത് y to power of 0110 to the base 2 mod n ആയിരിക്കും ഫോൾട്ട് ഉള്ള കേസിൽ ഇത് y to power of 0010 to base 2 mod n ആയിരിക്കും അതായത് x ൻറെയും x ൻറെയും വാല്യൂ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ അറ്റാക്കർക്കു x ൻറെയും x ൻറെയും വാല്യൂസിൽ നിന്ന് i പൊസിഷനിൽ ഉള്ള ഒറിജിനൽ ബിറ്റ് 1 ആണെന്ന് കണ്ടെത്താൻ കഴിയണം അതിനായി ആദ്യം a ൽ നിന്ന് a കുറച്ചാൽ 4 കിട്ടും വേറൊരുതരത്തിൽ പറഞ്ഞാൽ a യുടെ വാല്യൂ 2 ആയിരുന്നത് അറ്റാക്കർ ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയോ 6 ആക്കി മാറ്റി ഇപ്പോൾ ഈ പ്രത്യേക തലത്തിൽ a - a അതായത് 2 - 6 4 കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് a-a ഒന്നുകിൽ 2 I അല്ലെങ്കിൽ 2 I ആയിരിക്കും ഇവിടെ I എന്നത് 2 ആണ് അതായത് ഒറിജിനൽ വാല്യൂ 1 ആണോ 0 ആണോ എന്നതിനനുസരിച്ചു പോസിറ്റീവ് വാല്യൂ 2 I എന്നോ 2 I നെഗറ്റീവ വാല്യൂവോ ലഭിക്കും എന്തിരുന്നാലും അറ്റാക്കർക്കു x ഉം x ഉം മാത്രമേ അറിയൂ പിന്നെങ്ങനെ 2 I അല്ലെങ്കിൽ 2 I ഇതോ എന്ന വ്യത്യാസം ലഭിക്കും ഇതിനായി അയാൾ x നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യും അതായത് x നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുപറഞ്ഞാൽ y a mod n നെ y a mod n കൊണ്ട് അതായത് y a - a mod n എന്നുവച്ചാൽ y 2 I mod n ഐ പൊസിഷനിൽ 1 ആണെങ്കിൽ y 2 I mod n കിട്ടും അതായത് x നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y 2 I mod n എന്നോ y 2 Imod n എന്നോ ആണ് ലഭിക്കുക അപ്പോൾ അറ്റാക്കർക്ക് സൈഫർ ടെക്സ്റ്റ് y യുടെ വില അറിയാവുന്നതുകൊണ്ട് y 2 I mod n നും y 2 I mod n നും അയാൾക്ക് മുൻപേ കണ്ടുപിടിക്കാൻ സാധിക്കും അതായതു x ഉം x ഉം ഇപ്പോൾ അയാൾക്ക് ഇത് ഈ കേസ് ആണോ അതോ ഇതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ i പൊസിഷനിലുള്ള ബിറ്റ് 0 ആണോ അല്ലയോ എന്ന് ഇങ്ങനെ അറ്റാക്കർ രഹസ്യ കീയുടെ ഒരു ബിറ്റ് നേടും ഇതുപോലെ പതുക്കെപ്പതുക്കെ എല്ലാ ബിറ്റിലും ഫാൾസ് ഇൻജെക്റ്റ് ചെയ്തു എല്ലാ ബിറ്റും റിക്കവർ ചെയ്യും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അറ്റാക്ക് വളരെ എളുപ്പമുള്ളതാണ് എന്നാണ് എന്നാൽ ഇതിന്റെ പ്രാക്റ്റികാലിറ്റി അത്ര എളുപ്പമല്ല ബിറ്റ് ഫോൾട്ട് ഇൻജെക്റ്റ് ചെയ്യുക എന്നത് തന്നെ ബുദ്ധിമുട്ടാണ് പോരാത്തതിന് ഇവിടെ കീ 1024 ബിറ്റ് ആയതിനാൽ 1024 ഫോൾട്ടുകൾ ഇൻജെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും രഹസ്യ കീ മുഴുവനായി ലഭിക്കാൻ വേറെ കുറെ ഫലപ്രദമായ ഫോൾട്ട് അറ്റാക്കുകൾ ഉണ്ട് RSAൽ നിന്ന് രഹസ്യ കീ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല അതെല്ലാം താല്പര്യമുള്ള വായനക്കാർക്ക് വിടുന്നു മറ്റു പല അറ്റാക്കുകൾക്കായി താഴെ പറയുന്ന പേപ്പറുകൾ പരിശോധിക്കാവുന്നതാണ്